ഇന്ന് നമ്മൾ ചർച്ചചെയ്യുന്നത് മനഃശാസ്ത്രജ്ഞർ നിഗമനത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന രീതികളെ പറ്റിയാണ് എല്ലാ പെരുമാറ്റ പഠനങ്ങളും ഒടുവിൽ എന്തെങ്കിലും പ്രത്യേകതരം കണ്ടെത്തലുകളിലാണ് എത്തിച്ചേരുന്നത് ഒടുവിൽ ഈ കണ്ടെത്തലുകളിൽ ആവർത്തനം വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അതിനെ സിദ്ധാന്തവൽക്കരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമെടുത്ത ഹൈപോതെസിസ് ആവർത്തിച്ച് തെളിയിക്കപ്പെടുന്നതായി ബോധ്യപ്പെടുകയും ആയത് സിദ്ധാന്തങ്ങളാക്കി മാറ്റുകയും ചെയ്യപ്പെടുന്നു അപ്പോൾ രണ്ടാമത്തെ ആഴ്ച മുതൽ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ പ്രധാന ആശയങ്ങളും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതി ഉപയോഗിച്ച് പരിശോധിച്ചവയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മനഃശാസ്ത്രത്തിൽ നമ്മൾ കടന്നുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതികളെപറ്റി അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൽ ഉപയോഗിച്ചുവരുന്ന മുഖ്യമായ രീതികളെ ഓരോന്നായി പരിചയപ്പെടാം ഇവയെപ്പറ്റി സാമാന്യമായുള്ള ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ അതായത് എന്തൊക്കെയാണ് ഇതിലെ മാർഗങ്ങളെന്ന് മനസ്സിലാക്കിയാൽ അവ തമ്മിലുള്ള താരതമ്യം നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കും ഈ ഓരോ വിഭാഗങ്ങളുടെയും നേട്ടങ്ങളും പോരായ്മകളും എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാം അപ്പോൾ ആദ്യത്തെ രീതി ഒബ്സർവേഷൻ മെത്തേഡ് ആണ് ഇപ്പോൾ ഒബ്സർവേഷൻ എന്നുപറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നപോലെ അടിസ്ഥാനപരമായി ഒരു നിരീക്ഷകൻ ഉണ്ടാകും അയാൾ ഒരു വ്യക്തിയേയോ പ്രതിഭാസത്തെയോ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 2 രണ്ട് വിശാലമായ വിഭാഗങ്ങളാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്നതിലുള്ളത് ഒന്നിൽ നിരീക്ഷകനും കൂടി പങ്കെടുക്കുന്ന പ്രക്രിയയാണ് അപ്പോൾ നിരീക്ഷകൻ അവനോ അവളോ നിരീക്ഷിക്കുന്ന ഗ്രൂപ്പുമായി നേരിട്ട് ബന്ധപ്പെടുന്നു ഇതിനെയാണ് പാർട്ടിസിപെൻഡ് ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് നിങ്ങൾ കളികൾ പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അതായത് ഗ്രൂപ്പ് തെറാപ്പി പോലെയുള്ളവ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൻറെ ഒരു ഭാഗമാകുകയും എന്നിട്ട് നിങ്ങൾ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നു പാർട്ടിസിപെൻഡ് ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് മറ്റൊരുതരം നിരീക്ഷണമാണ് നോൺ പാർട്ടിസിപെൻഡ് ഒബ്സർവേഷൻ ഇതിൽ നിരീക്ഷകൻ നിരീക്ഷിക്കുന്ന ഗ്രൂപ്പുമായി നേരിട്ട് ബന്ധപ്പെടുന്നില്ല അതായത് ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് എടുത്താൽ എപ്പോഴും ഒരു വൺവേ ഗ്ലാസ് ഉണ്ടായിരിക്കും ഒരു വശത്ത് ഒരു ഗ്രൂപ്പും നിരീക്ഷകൻ എപ്പോഴും ആ ഗ്ലാസിൻറെ പുറകിലുമാണ് ഉണ്ടാവുക ഗ്രൂപ്പിന് നിരീക്ഷകനായ മനഃശാസ്ത്രജ്ഞനെ കാണുവാൻ സാധിക്കില്ല എന്നാൽ നിരീക്ഷകനായ മനഃശാസ്ത്രജ്ഞന് ഗ്രൂപ്പിനെ കാണുവാൻ സാധിക്കും ക്ലിനിക്കൽ സജ്ജീകരണത്തിലാണ് നിങ്ങൾ ഈ രീതി കൂടുതലായും കാണുന്നത് കൂടാതെ വിദ്യാഭ്യാസപരമായ സജ്ജീകരണത്തിലും ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ സജ്ജീകരണത്തിലും സാമൂഹിക സാമുദായിക സജ്ജീകരണത്തിലും ചിലപ്പോൾ നിങ്ങൾക്ക് നോൺ പാർട്ടിസിപെൻഡ് ഒബ്സർവേഷൻ ഉപയോഗിക്കുന്നതായി കാണാം ഒബ്സർവേഷൻ മെത്തഡുകളുടെ ഘടനകളാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ വീണ്ടും സൂചിപ്പിക്കുന്നതുപോലെ ഇത് സ്വാഭാവികമായ പശ്ചാത്തലത്തിൽ വച്ചുള്ള മനുഷ്യൻറെയും മൃഗങ്ങളുടെയും പെരുമാറ്റത്തെ പറ്റി നടത്തുന്ന ചിട്ടയായിട്ടുള്ള ഒരു പഠനമാണ് നിങ്ങൾക്കൊരിക്കലും ഒരു മൃഗത്തെ ലാബിലേക്ക് കൊണ്ടുവന്ന് സ്വാഭാവികമായ വാസസ്ഥലത്തുള്ള അതിൻറെ സ്വഭാവം പഠിക്കുവാൻ സാധിക്കില്ല അതിൻറെ സ്വഭാവം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻറെ വാസസ്ഥലത്തെ അസ്വസ്ഥതമാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിൽ ഒരേയൊരു വഴിയാണ് അവശേഷിക്കുന്നത് അത് നിരീക്ഷകനായ നിങ്ങൾ അതിൻറെ സ്വാഭാവികമായ ചുറ്റുപാടിലേക്ക് പോവുകയും നിങ്ങളുടെ നിരീക്ഷണം നടത്തുകയും ചെയ്യുകയെന്നതാണ് രണ്ടാമത്തേത് കൺട്രോൾഡ് ഒബ്സർവേഷൻ ആണ് അവിടെ നിരീക്ഷകൻ നിയന്ത്രിതമായ ലാബ് വ്യവസ്ഥയിൽ സ്വഭാവത്തെ നിരീക്ഷിക്കുന്നു ബണ്ടൂരാസ് ബോബോ ഡോൾ ഉദാഹരണം വളരെ പ്രസിദ്ധമായൊരു കൺട്രോൾഡ് ഒബ്സർവേഷൻ ഉദാഹരണമാണ് നിരീക്ഷണത്തിൻറെ മറ്റൊരു ഘടന സബ്ജക്ടീവ് ഒബ്സർവേഷൻ എന്നറിയപ്പെടുന്നു ഈ രീതിയിൽ പരീക്ഷകൻ അല്ലെങ്കിൽ നിരീക്ഷകൻ വളരെ ശ്രദ്ധയോടെ അവരുടെ ചിന്തകളും വികാരങ്ങളും പരിശോധിക്കുകയും അത് അറിയിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളാണ് ഇതിലെ പങ്കെടുക്കുന്നയാൾ ഇതിൽ പരീക്ഷണ പ്രക്രിയയിലൂടെ കടന്ന് നിങ്ങളുടെ സ്വന്തം ചിന്തകളും വികാരങ്ങളും നിങ്ങൾ വിശകലനം നടത്തി റിപ്പോർട്ട് ചെയ്യുന്നു അതായത് മനഃശാസ്ത്രജ്ഞനാണ് ഈ റിപ്പോർട്ടിൽ പരിശോധനയ്ക്ക് വിധേയമാകുന്നത് ഇതാണ് സബ്ജക്ടീവ് ഒബ്സർവേഷൻ മെത്തേഡ് മറ്റൊരു പ്രധാനപ്പെട്ട രീതി നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന കേസ് സ്റ്റഡി മെത്തേഡ് ആണ് ഓർഗനൈസേഷനൽ ബിഹേവിയർ മേഖലയിലും ക്ലിനിക്കൽ സൈക്കോളജി മേഖലയിലും രണ്ടിലും ഈ രീതി വളരെയധികം ഉപയോഗിക്കുന്നതായി നിങ്ങൾക്ക് കാണാം ഈ രീതിയിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ വളരെ തീവ്രമായ വിശദീകരണങ്ങളും വിശകലനങ്ങളും നടക്കുന്നു അപ്പോൾ ഒരൊറ്റ കേസെടുത്താൽ നിങ്ങൾ അതിനെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുകയും വിശദീകരിക്കുകയും വ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും ഒരു പ്രവൃത്തി ഉണ്ടാകും പിന്നീട് നിങ്ങൾ ആ പ്രവൃത്തിയുടെ വളരെ വിശദമായ ഒരു വിശകലനവും വ്യാഖ്യാനവും നടത്തുന്നു അത് കേസ് സ്റ്റഡിയായി അറിയപ്പെടുന്നു അടുത്തതായി സർവ്വേ നിങ്ങൾക്ക് എല്ലാം അറിയാം വളരെ പ്രസിദ്ധമായൊരു രീതിയാണിത് അടിസ്ഥാനപരമായും വളരെ വിശദവും വളരെ വ്യാപകവുമായ ഒരു പഠനമാണിത് പ്രത്യേക വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി രൂപീകരിക്കുന്ന ഒന്നാണിത് അപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചോദ്യാവലികൾ ഉണ്ട് അത് പെരുമാറ്റത്തിൻറെ ഒരു പ്രത്യേക വശം സംബന്ധിച്ചുള്ള ഏറ്റവും സവിശേഷമായ വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ഇനങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖങ്ങൾ നടത്തുമ്പോൾ ഒരുകൂട്ടം ആളുകളെ അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി തെരഞ്ഞെടുക്കുന്നു പിന്നീട് നിങ്ങൾ ഇതിനെ വിശകലനം ചെയ്യുകയും പ്രത്യേക കണ്ടെത്തലുകളുമായി മുന്നോട്ടു വരികയും ചെയ്യുന്നു അതായത് ആകമാനം ആളുകൾ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആളുകൾ ആകമാനം ചിന്തിക്കുന്നതെന്നും അല്ലെങ്കിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്ന പ്രത്യേക സന്ദർഭത്തിൽ ആളുകളുടെ വ്യാഖ്യാനം എന്നും ഇവയാണ് സർവേ റിപ്പോർട്ടുകൾ വളരെ പ്രസിദ്ധമായ ഒരുതരം ഗവേഷണമാണ് മനഃശാസ്ത്രത്തിൽ പൊതുവേ കാണപ്പെടുന്ന കോറിലേഷണൽ ടൈപ്പ് ഓഫ് റിസർച്ച് ഇത് ഒരുതരം ടെക്നിക്കാണ് അത് അടിസ്ഥാനപരമായും രണ്ടോ അതിലധികമോ വേരിയബിളുകൾ തമ്മിലുള്ള സ്വാഭാവികമായ ബന്ധത്തെ സംബന്ധിച്ചാണുള്ളത് ഇതിൽ പറയുന്നത് ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ അവയുടെ സ്വാഭാവിക ക്രമത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുവച്ചാൽ അവിടെ കുറച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു അതായത് ഇവ രണ്ടും തമ്മിൽ സ്വാഭാവികമായ ഒരു ബന്ധമുണ്ടെന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഴക്കാലത്ത് നിങ്ങൾക്ക് ഇടിയുടെ ശബ്ദവും മിന്നലും ഉണ്ടെങ്കിൽ ഇവ തമ്മിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ സാധിക്കും അതായത് x നടന്നുകഴിഞ്ഞാൽ y ഉടനെ നടക്കുമെന്ന് പറയുവാനാകും അപ്പോൾ നിങ്ങൾ ആദ്യം വെളിച്ചം കാണുകയാണെങ്കിൽ പിന്നീട് കുറച്ചു നേരത്തിനു ശേഷം നിങ്ങൾക്ക് ശബ്ദവും കേൾക്കുവാനാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവ രണ്ടും തമ്മിൽ പരസ്പരബന്ധമുണ്ടെന്ന് ഇവ ഒരേ പ്രക്രിയയുടെ പരിണിത ഫലങ്ങളാണ് എന്തുകൊണ്ടെന്നാൽ പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് മിന്നൽ നമ്മൾക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നു അതിനുശേഷമാണ് ശബ്ദം കേൾക്കുവാൻ പറ്റുന്നത് അപ്പോൾ ഇത് വളരെ സ്വാഭാവികമായ ഒരു ബന്ധമാണ് മനഃശാസ്ത്രത്തിൽ വളരെ പ്രധാനമായ പ്രശ്നങ്ങളിലൊന്നാണ് ചില പ്രത്യേക അന്തർലീനമായ ബന്ധങ്ങൾ നമ്മൾ അതിൻറെ ചുരുൾ അഴിക്കേണ്ടതുണ്ട് കാരണം അത് ഒട്ടും തന്നെ വ്യക്തത ഉള്ളതല്ല അപ്പോൾ എന്തു സംഭവിക്കുന്നുവെന്നുവെച്ചാൽ മനഃശാസ്ത്രജ്ഞർ കോറിലേഷണൽ റിസർച്ച് ഉപയോഗപ്പെടുത്തുന്നു അവർ ഈ ടെക്നിക് വഴി രണ്ടോ രണ്ടിൽ കൂടുതലോ ആയ കാര്യങ്ങൾ തമ്മിലുള്ള പരസ്പരബന്ധം കണ്ടെത്താൻ ശ്രമിക്കുന്നു അപ്പോൾ നമ്മൾ നിർമിതികളെ അളന്നു കഴിഞ്ഞെന്നു വിചാരിക്കുക ഉദാഹരണത്തിന് വളരെ എളുപ്പമുള്ള ഉദാഹരണമാണ് നിങ്ങൾ വളരെയധികം ബുദ്ധിമാനാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ കിട്ടിയ മാർക്ക് അതിനോട് ചേർച്ച ഉള്ളതായിരിക്കണം നിങ്ങൾ വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ചില വിഷയത്തിലെ മാർക്കുകൾ വളരെയധികം ഉയർന്നതായിരിക്കും എല്ലാ വിഷയത്തിലും അങ്ങനെയല്ലെങ്കിൽ പോലും അപ്പോൾ അവിടെ ഒരു പരസ്പര ബന്ധമുണ്ട് ഇത് വളരെ ഉയർന്നതാണെങ്കിൽ അതായത് x ഉയർന്നതാണെങ്കിൽ y തീർച്ചയായും ഉയർന്നതായിരിക്കും ഇത്തരത്തിലുള്ള ബന്ധത്തെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കുന്നത് അതായത് ഒരു വേരിയബിൾ കൂടുകയാണെങ്കിൽ മറ്റേ വേരിയബിളും കൂടുക തന്നെ ചെയ്യും ഇതിൻറെ വിപരീതവും സാധ്യമാണ് ഇപ്പോൾ പറയുകയാണ് വളരെ അധികം പഠിക്കുന്ന കുട്ടികൾ കായികമായ മേഖലയിലേക്ക് കടക്കാറില്ല ഇത് ഒരു നിരീക്ഷണമാണ് നിങ്ങൾ പറയുകയാണ് ഒരു കാര്യം കൂടുകയാണെങ്കിൽ മറ്റൊരു കാര്യം കുറയുമെന്ന് അതായത് നിങ്ങൾ പാഠശാലവിഷയങ്ങളുടെ പ്രവർത്തികളിൽ വ്യാപൃതരാകുന്നത് കൂടിയാൽ നിങ്ങളുടെ കായിക മേഖലയിലുള്ള പ്രവർത്തനം കുറയുന്നു ഒരു വേരിയബിൾ കൂടുന്നത് മറ്റൊന്നിൽ ഉണ്ടാകുന്ന കുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് വിളിക്കുന്നത് മൂന്നാമത്തെ സാധ്യത എന്തെന്നാൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന രണ്ട് നിർമ്മിതികൾ തമ്മിൽ യാതൊരു പരസ്പര ബന്ധവുമില്ല ഉദാഹരണത്തിന് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക എൻറെ ഹോസ്റ്റൽ പരിധിയിൽ ഏഴ് നായ്ക്കൾ ഉണ്ട് അവ പതിവായി വൈകുന്നേരങ്ങളിൽ കുരയ്ക്കാറുണ്ട് ഞാൻ വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുന്നത് അപ്പോൾ പുസ്തകത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നതും പട്ടികളുടെ കുരയും ഒരേസമയത്താണ് നടക്കുന്നതെന്നു വരാം പക്ഷേ ഇവ തമ്മിൽ ഒരു പരസ്പര ബന്ധവുമില്ല അപ്പോൾ മാതൃകാപരമായി എന്താണ് സംഭവിക്കേണ്ടത് എന്നുവച്ചാൽ തമ്മിൽ വളരെ വിഭിന്നമായ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് നിങ്ങൾ അവ തമ്മിൽ ഒരു സ്റ്റാറ്റിസ്സ്റ്റിക്കൽ ടെക്നിക് വഴി പരസ്പരബന്ധം കണക്കാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഇതിനെയാണ് സീറോ കോറിലേഷൻ എന്ന് പറയുന്നത് എക്സ്പീരിമെൻറ്റേഷൻ പരീക്ഷണങ്ങൾ തീർച്ചയായും വളരെ പ്രസിദ്ധമായ രീതിയാണ് ഇപ്പോൾ എക്സ്പീരിമെൻറൽ റിസർച്ചിൽ ചില വ്യവസ്ഥകൾ ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇവിടെ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു വലിയ ചിത്രം വരച്ചെടുക്കാൻ വേണ്ടി ഒരു വേരിയബിളിനെ മനപ്പൂർവമായി സ്വാധീനിച്ച് അനുമാനത്തിൽ എത്തുന്നു അപ്പോൾ ആളുകൾ ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്നു അതിനെ എക്സ്പിരിമെൻറൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ ഗ്രൂപ്പിനെ കണ്ട്രോൾ ഗ്രൂപ്പ് എന്നും വിളിക്കുന്നു സാധാരണയായി എക്സ്പിരിമെൻറൽ ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുവച്ചാൽ ആദ്യത്തെ ഗ്രൂപ്പ് അതായത് എക്സ്പിരിമെൻറൽ ഗ്രൂപ്പ് മാറ്റങ്ങൾ ഉണ്ടാകുന്ന വേരിയബിളുകൾക്ക് വിധേയമാകുന്നു ഈ വേരിയബിളുകളാണ് പിന്നീട് ഇൻഡിപെൻഡൻറ് വേരിയബിൾസ് എന്ന് വിളിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് ഒരു കാര്യം ചെയ്തു തീർക്കുവാനുള്ള സമയത്തിൽ ബുദ്ധിശക്തിക്ക് എത്രത്തോളം പങ്കുണ്ടെന്ന് ഞാനിപ്പോൾ പഠിക്കാൻ ശ്രമിക്കുകയാണ് കൂടാതെ അതെ കാര്യത്തിൽ പ്രതികരണങ്ങളുടെ കൃത്യത എത്രത്തോളമുണ്ടെന്നും നോക്കുന്നു ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾക്കും അതായത് എത്ര സമയം എടുത്തു എന്നുള്ളതിനും അതിൻറെ കൃത്യതയ്ക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവ ഡിപെൻഡൻറ് വേരിയബിൾ ആയി മാറുന്നു എൻറെ ബുദ്ധിശക്തി ഇൻഡിപെൻഡൻറ് വേരിയബിൾ ആകുന്നു അപ്പോൾ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിൽ ഉണ്ടാക്കുന്ന പ്രഭാവമാണ് എക്സ്പീരിമെൻറൽ റിസർച്ചിൽ പരിശോധിക്കുന്നത് ഇവിടെ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഇൻഡിപെൻഡൻറ് വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ അത് എക്സ്പിരിമെൻറൽ ഗ്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്നു മറ്റൊരു ഗ്രൂപ്പിൽ ഇൻഡിപെൻഡൻറ് വേരിയബിൾസ് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നില്ല അതിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു നിങ്ങൾ കാണുന്നത് അടിസ്ഥാനപരമായും ആദ്യത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകളുടെ എക്സ്പിരിമെൻറൽ ഗ്രൂപ്പിൻറെയും കൺട്രോൾ ഗ്രൂപ്പിൻറെയും പ്രകടനത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഇവയാണ് എക്സ്പീരിമെൻറൽ റിസർച്ചിൽ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ലാബുകളിൽ നടത്തുന്ന പരീക്ഷണങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് വളരെ നിയന്ത്രിതമായ ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ ചില കേസുകൾ എടുത്താൽ അവിടെ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ കുറച്ചുകൂടി നിയന്ത്രിക്കാൻ സാധിക്കും എന്നാൽ അത് യഥാർത്ഥ ലാബ് സെറ്റപ്പ് ആയിരിക്കില്ല പക്ഷേ എക്സ്പീരിമെൻറൽ മെത്തേഡ് എടുത്താൽ വളരെ കൃത്യവും വസ്തുനിഷ്ഠവുമായ അളവുകൾ ലഭിക്കുന്നു രണ്ടാമതായി ഗവേഷകന് ഇവിടെ സ്ഥലം സമയം സാഹചര്യങ്ങൾ പങ്കെടുക്കുന്നവർ എന്നിവയുടെമേൽ ഏറ്റവും കൂടുതൽ നിയന്ത്രണം ഉണ്ടാകുന്നു അതുകൂടാതെ ഈ പരീക്ഷണ പ്രക്രിയകൾ വളരെയധികം നിലവാരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് എക്സ്പീരിമെൻറൽ മെത്തേഡ് തീർച്ചയായും നിങ്ങൾ ഗവേഷണം നടത്തുമ്പോൾ കണ്ടെത്തലുകളിൽ എത്തിച്ചേരാൻ ഉതകുന്ന വളരെയധികം ദൃഢതയുള്ള ഒരു രീതിയാണ് അവിടെ ഫീൽഡ് എക്സ്പീരിമെൻറ് ഉണ്ടാവാം അപ്പോൾ ഫീൽഡ് എക്സ്പിരിമെൻറ് എന്നു പറഞ്ഞാൽ പങ്കെടുക്കുന്നവരുടെ സ്വാഭാവികമായ സാഹചര്യത്തിൽ നടത്തുന്ന തരം പരീക്ഷണങ്ങളാണ് എന്നാൽ അവിടുത്തേ സന്ദർഭങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്നു ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ വ്യക്തിഗതമായ അനുഭവങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് എന്നിരുന്നാലും പങ്കെടുക്കുന്നവരെ അവരുടെ സ്വാഭാവികമായ ആവാസവ്യവസ്ഥയിൽ നിന്നും ഒരു ലാബിലേക്ക് കൊണ്ടുപോകുന്നില്ല ഇവിടെയും പരീക്ഷകൻ ഇൻഡിപെൻഡൻറ് വേരിയബിളിനെ സ്വാധീനിക്കുന്നു എന്നാൽ അത് യഥാർത്ഥ ജീവിത സാഹചര്യത്തിലാണ് നടത്തുന്നത് കൂടാതെ പരീക്ഷണം നടത്തുന്നയാൾക്ക് പുറമേയുള്ള ചില വേരിയബിളുകളുടെ മേൽ പൂർണമായ നിയന്ത്രണം ഉണ്ടാകില്ല അപ്പോൾ ഇവയാണ് നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത വേരിയബിൾസ് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ് വേരിയബിൾസിനെ കുറിച്ച് ചിന്തിക്കാം ഡിപെൻഡൻറ് വേരിയബിൾസിനെ കുറിച്ചും ആസൂത്രണം ചെയ്യാം ഇൻഡിപെൻഡൻറ് ഡിപെൻഡൻറ് എന്നീ വേരിയബിളുകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്നും നിങ്ങൾക്ക് അനുമാനിക്കാം പക്ഷേ അപ്പോൾ മറ്റു ചില തരത്തിലുള്ള വേരിയബിളുകൾ എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നവ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതല്ല അപ്പോൾ ഇൻഡിപെൻഡൻറ് വേരിയബിൾസ് അടിസ്ഥാനപരമായും പരീക്ഷണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന വ്യവസ്ഥകളാണ് പരീക്ഷണങ്ങളിൽ ഇൻഡിപെൻഡൻറ് വേരിയബിൾസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ പരിണിത ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഡിപെൻഡൻറ് വേരിയബിൾസ് പിന്നീട് ഇൻറർവീനിങ് വേരിയബിൾസ് എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്നിവയും ഉണ്ടാകും ഇവയൊക്കെ ഇൻഡിപെൻഡൻറ് ഡിപെൻഡൻറ് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നവയാണ് നിങ്ങൾക്ക് ഇവയെ പറ്റി പ്രവചിക്കാൻ ആവുമെങ്കിൽ തീർച്ചയായും ഇവയെ നിയന്ത്രിക്കാനുള്ള രീതികൾ ലഭ്യമാണ് അവിടെ ചില വേരിയബിളുകൾ നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റാത്തതായിട്ട് ഉണ്ടാവാം എന്നാൽ അവയ്ക് ബന്ധത്തിൽ സ്വാധീനം ചെലുത്തുവാനാകും സാധാരണയായി നമ്മൾ കാണുന്നത് ആളുകൾ പരസ്പരമുള്ള ബന്ധത്തെ അളക്കുവാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അവിടെ ഇൻഡിപെൻഡൻറ് ഡിപെൻഡൻറ് വേരിയബിളുകൾ തമ്മിൽ നേരിട്ടുള്ള ബന്ധമാണ് കണക്കാക്കപ്പെടുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇൻഡിപെൻഡൻറ് വേരിയബിൾ ഐ വി എന്നും ഡിപെൻഡൻറ് വേരിയബിൾ ഡി വി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ചില വേരിയബിളുകൾ ഇൻഡിപെൻഡൻറ് ഡിപെൻഡൻറ് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഒന്നാണ് മീഡിയേഷൻ ഇഫക്ട് എന്ന് വിളിക്കപ്പെടുന്നത് അപ്പോൾ മീഡിയേഷൻ എന്നുവച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എം വി എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഇൻഡിപെൻഡൻറ് വേരിയബിൾ ഡിപെൻഡൻറ് വേരിയബിളിനെ സ്വാധീനിക്കുകയും അത് മീഡിയേറ്റിംഗ് വേരിയബിളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു മറ്റൊരുതരം ഇഫക്ടാണ് മോഡറേഷൻ ഇഫക്ട് എന്ന് വിളിക്കപ്പെടുന്നത് ഇവിടെ ഇൻഡിപെൻഡൻറ് വേരിയബിൾ ഡിപെൻഡൻറ് വേരിയബിളിനെ സ്വാധീനിക്കുന്നു പക്ഷേ പിന്നീട് അവിടെ മറ്റു ചില ഘടകങ്ങളും ഇൻഡിപെൻഡൻറ് വേരിയബിൾ ഡിപെൻഡൻറ് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നതായി ഉണ്ട് ഇതിനെയാണ് മോഡറേഷൻ ഇഫക്ട് എന്ന് വിളിക്കുന്നത് മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ആമുഖമായ ഈ കോഴ്സിൽ ഞാൻ മീഡിയേഷൻ മോഡറേഷൻ ഇഫക്ടുകളുടെ mediation moderation effect വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഇൻഡിപെൻഡൻറ് ഡിപെൻഡൻറ് എക്സ്ട്രേനിയസ് എന്നിങ്ങനെ വേരിയബിളുകൾ ഉണ്ടെന്ന് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് വിശകലനത്തിനു വേണ്ടി ഒരു കൂട്ടം വേരിയബിളിനെ മീഡിയേറ്റിംഗ് വേരിയബിൾ ആയിട്ടും അല്ലെങ്കിൽ മോഡറേറ്റിംഗ് വേരിയബിൾ ആയിട്ടും കണക്കാക്കാം അപ്പോൾ വേരിയബിളുകൾ അടിസ്ഥാനപരമായും അളന്ന് എടുക്കപ്പെട്ട ആശയങ്ങളാണ് വ്യത്യസ്തമായ മൂല്യങ്ങൾ ഇവയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നൽകുന്ന നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ അവ കണ്ടിന്യൂവസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആകാം അപ്പോൾ ഒരു പ്രത്യേക റേഞ്ചിലുള്ള സംഖ്യാപരമായ മൂല്യമുള്ള വേരിയബിളുകളെ കണ്ടിന്യൂവസ് വേരിയബിൾസ് എന്ന് വിളിക്കപ്പെടുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്കെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 2 ബിന്ദുക്കൾ ഉള്ളതായി നിങ്ങൾക്ക് കാണാം അതായത് 0 1 2 3 എന്നിങ്ങനെ എന്നാൽ നിങ്ങൾക്ക് ഈ സ്കെയിലിൽ പൂജ്യത്തിനും ഒന്നിനും ഇടയിൽ 10 വ്യത്യസ്തമായ വരകൾ ഉള്ളതായി കാണാം അപ്പോൾ അവിടെ ഒരു തുടർച്ചയുണ്ട് അതായത് ഈ വരകൾക്കിടയിൽ തുല്യമായ അകലം ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഒരു പദം എടുക്കുകയാണെങ്കിൽ 'വയസ്സ്' ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആണ് എന്നാൽ മറ്റു ചില വേരിയബിളുകളുണ്ട് അവ ഡിസ്ക്രീറ്റ് ആണ് ഡിസ്ക്രീറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന വേരിയബിൾസിൽ അവയുടെ വ്യക്തിഗത മൂല്യം സ്കെയിലിൻറെ പ്രത്യേക വിടവിൽ മാത്രം വീഴുകയും ആ വിടവ് വളരെ വിഭിന്നവുമാകുകയും ചെയ്യുമ്പോഴാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ജനസംഖ്യാപരമായ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഒരാളോട് എത്ര കുടുംബാംഗങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കുകയോ എത്ര കുട്ടികളാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കുകയോ ചെയ്താൽ ആ സംഖ്യ മാറിക്കൊണ്ടിരിക്കും ഇതിനെയാണ് അടിസ്ഥാനപരമായും ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്ന രീതികളിലേക്ക് തിരിച്ചു വന്ന് അവയുടെ നേട്ടങ്ങളും പോരായ്മകളും നോക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ കോറിലേഷൻ മെത്തേഡിൻറെ ഗുണമായി കാണാൻ പറ്റുന്നത് മറ്റൊരു രീതികളും ഉപയോഗിച്ച് പരിശോധിക്കാൻ പറ്റാത്ത വേരിയബിളുകൾ തമ്മിലുള്ള പരസ്പരബന്ധം തെളിയിക്കുവാൻ ഈ രീതി കൊണ്ട് സാധിക്കുന്നു അപ്പോൾ സ്വഭാവത്തെ പ്രവചിക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു കോറിലേഷൻ റിസർച്ചിൻറെ പരിമിതിയായി പറഞ്ഞാൽ തീർച്ചയായും ഇത് നിങ്ങളെ കാരണവും ഫലവും തമ്മിലുള്ള ബന്ധത്തെ പ്രവചിക്കാൻ അതായത് ഇത് അതിലേക്കു നയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് നിർണയിക്കാൻ അനുവദിക്കുന്നില്ല നിങ്ങൾക്ക് അവ രണ്ടും തമ്മിൽ ബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ എക്സ്പീരിമെൻറൽ മെത്തേഡിൽ ഒരു വശത്ത് ഏറ്റവും വലിയൊരു നേട്ടം എന്നുവച്ചാൽ അതിന് വേരിയബിൾസിൽ പൂർണമായ നിയന്ത്രണമുണ്ട് അതു കൂടാതെ നിങ്ങൾക്ക് കാരണവും ഫലവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കുന്നു കോറിലേഷൻ റിസർച്ചിൽ ചെയ്യാൻ സാധിക്കാത്തത് എക്സ്പീരിമെൻറൽ റിസർച്ചിലൂടെ നിങ്ങൾക്ക് ചെയ്യുവാനാകും എക്സ്പീരിമെൻറൽ റിസർച്ചിൻറെ ഏറ്റവും വലിയ പരിമിതി തീർച്ചയായും അതിൻറെ പശ്ചാത്തലത്തിലുള്ള കൃത്രിമത്വമാണ് അതിൻറെ പശ്ചാത്തലത്തിൽ നിങ്ങൾ എന്ത് മാറ്റം വരുത്തിയാലും അത് സ്വഭാവത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ചില സമയങ്ങളിൽ അവിചാരിതവും അനിയന്ത്രിതവുമായ വേരിയബിളുകൾ ചിലപ്പോൾ അന്തിമ ഫലത്തെ ബാധിച്ചുവെന്ന് വരാം കൺഫൌണ്ടിംഗ് വേരിയബിളിൻറെ പ്രഭാവം മാറ്റിനിർത്തുക എന്നുള്ളത് എക്സ്പീരിമെൻറൽ റിസർച്ചിൽ വലിയൊരു വെല്ലുവിളിയാണ് നമ്മൾ ചർച്ച ചെയ്ത നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷവേഷന് വളരെ വലിയ ഗുണമാണുള്ളത് ഇത് നിങ്ങൾക്ക് നേരിട്ടു തന്നെ വളരെയധികം സ്വഭാവ വിവരങ്ങൾ നൽകുന്നു കൂടാതെ ഇത് വളരെ കൃത്യതയുള്ളതും ആയിരിക്കും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ നിരീക്ഷകൻറെ സാന്നിധ്യം ചിലപ്പോൾ സ്വഭാവത്തെ ബാധിച്ചേക്കാം രണ്ടാമത് നിരീക്ഷകൻറെ മുൻവിധി ഒരാൾ അനുമാനത്തിൽ എത്തിച്ചേരുന്നതിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അവ്യക്തമായ മറ്റൊന്നാണ് നിരീക്ഷണത്തെ മറ്റു പശ്ചാത്തലങ്ങളിലേക്ക് കൂടാതെ മറ്റു പങ്കെടുക്കുന്നവരും ആയോ മറ്റു വിഷയങ്ങളും ആയോ സാമാന്യവൽക്കരിക്കാൻ ആകുമോ എന്നത് അതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷവേഷൻറെ വളരെ വലിയ പരിമിതി സർവ്വേകൾ വളരെ വലിയ നേട്ടമുള്ളതാണ് നിങ്ങൾക്ക് സ്വഭാവത്തെ വളരെ സ്വാഭാവികമായും സ്വമേധയാ ഉള്ളതും വിഭിന്നവുമായ രീതിയിൽ നോക്കുവാൻ സാധിക്കും ഏറ്റവും വലിയ നേട്ടം എന്തെന്നുവെച്ചാൽ വളരെ അധികം ഡാറ്റ ശേഖരിക്കുവാനും സാധിക്കുന്നു ഇതാണ് ഇതുവരെ നമ്മൾ കണ്ട രീതികളിൽ എല്ലാം വെച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞത് പിന്നെ നിങ്ങളുടെ മുന്നിൽ വളരെയധികം ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും അനുമാനം കണ്ടെത്താനും സാധിക്കുന്നു പ്രശ്നം തീർച്ചയായും എന്തെന്ന് വെച്ചാൽ സർവ്വേ ടെക്നിക്കിൽ സാംപ്ലിങ് ബയസ് ഉണ്ടായാൽ അന്തിമ ഫലത്തെ അത് ബാധിക്കും അപ്പോൾ നിങ്ങൾ എടുത്ത സാമ്പിൾ ജനസംഖ്യയെ എല്ലാത്തരത്തിലും പ്രതിനിധീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തലുകൾ വളരെ പക്ഷപാതകരമായിരിക്കും രണ്ടാമത് നിങ്ങൾ പ്രത്യേക ചില ചോദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിർമ്മിക്കുന്ന ചോദ്യങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ അത് അവ്യക്തമായ ഉത്തരങ്ങൾ കിട്ടുവാൻ ഇടയാക്കും അതുകൊണ്ട് കൃത്യത എന്നത് പങ്കെടുക്കുന്നവരുടെ സന്നദ്ധത നിങ്ങൾ സർവ്വേയിൽ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളുടെ ഗുണനിലവാരം എന്നിവയെ ആശ്രയിച്ചായിരിക്കും കേസ് സ്റ്റഡീസിന് തീർച്ചയായും ചില ഗുണങ്ങളുണ്ട് അവ വളരെ വിശദീകരണം നിറഞ്ഞ വിവരങ്ങൾ ശേഖരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് പരിശോധനയ്ക്കായി ഒരു വ്യക്തിയുടെ ഒരു ഗ്രൂപ്പിൻറെ സംഭവങ്ങളുടെ സമുദായങ്ങളുടെ വളരെ ആഴത്തിൽ കടന്നുചെല്ലാൻ സാധിക്കും നിങ്ങൾക്ക് പാരിസ്ഥിതിക പ്രാബല്യമുള്ള ധാരാളം ക്വാളിറ്റേറ്റീവ് ഡാറ്റ കൂടി ലഭ്യമാകുന്നു അപ്പോൾ കേസ് സ്റ്റഡിക്ക് ഉള്ള ഗുണങ്ങൾ ഇവയൊക്കെയാണ് പോരായ്മ എന്തെന്നുവെച്ചാൽ നിങ്ങൾക്ക് പ്രതിനിധീകരിക്കുന്ന സാമ്പിളുകൾ ലഭിച്ചെന്നുവരില്ല കാരണം നിങ്ങൾ ഒരു വ്യക്തിയെയോ ഒരു ചെറിയ കൂട്ടം ആളുകളെയോ ആണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടേത് പ്രതിനിധീകരിക്കുന്ന സാമ്പിളുകൾ അല്ലാത്തതുകൊണ്ട് സാമാന്യവൽക്കരിക്കുക എന്നത് വളരെ വലിയൊരു പ്രശ്നമാണ് ഇത് വളരെ സമയമെടുക്കുന്നതും ചിലവേറിയതുമാണ് അതുകൂടാതെ വീണ്ടും നിരീക്ഷകൻറെ മുൻവിധികൾ കേസ് സ്റ്റഡിയുടെ കണ്ടെത്തലുകളെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുമുണ്ട് മനശാസ്ത്രജ്ഞർ അഭിമുഖങ്ങൾ നടത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സംബന്ധിയായി പറയുകയാണെങ്കിൽ അവ ചിലപ്പോൾ ക്രമം ഇല്ലാത്തതോ ക്രമം ഉള്ളതോ ആയിരിക്കും അപ്പോൾ ഘടനാ ക്രമം ഇല്ലാത്ത രീതിയിലുള്ള അഭിമുഖങ്ങളിൽ നിങ്ങൾ അനൌപചാരികമായ അഭിമുഖങ്ങളായിട്ട് മുന്നോട്ടു പോകുന്നു അവിടെ നിങ്ങൾക്ക് നിശ്ചിതമായ ചോദ്യങ്ങൾ ഉണ്ടാകാറില്ല നിങ്ങൾക്ക് കാലികപ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ പ്രശ്നങ്ങൾ എന്നിവ ഉയർത്തുവാനുള്ള അവസരമുണ്ടാകും നിങ്ങൾക്ക് അവ ഒരു രീതിയിൽ ചോദിക്കുവാൻ ആകും അത് വ്യാഖ്യാനത്തിന് വേണ്ടിയുള്ള വളരെ സമ്പന്നമായ ഗുണ സംബന്ധിയായ ഡാറ്റ ആയി മാറുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഘടനയുള്ള അഭിമുഖങ്ങൾ നടത്തുവാനുള്ള അവസരം ഉണ്ട് ഇവിടെ വളരെ ഔപചാരികമായ പശ്ചാത്തലത്തിൽ ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിവെക്കുന്നു അപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ഒരേ ചോദ്യങ്ങളാണ് പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുന്നത് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മാറ്റം വരുത്തുന്നില്ല ചോദ്യകർത്താവ് അവരുടെ വേഷം നിലനിർത്തുകയും അഭിമുഖത്തിനു വന്നവരുടെ അടുത്ത് സാമൂഹിക അകലം പാലിക്കുകയും ഈ അഭിമുഖവുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്നു ഈ ഉപാധികളെല്ലാം ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ് ഇവയെല്ലാം ഉപയോഗത്തിലുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചോദ്യാവലികൾ വളരെ അധികം പ്രസിദ്ധി നേടിയ ഒന്നാണ് ഇവ മുഖാമുഖമോ അല്ലെങ്കിൽ ടെലഫോൺ സംഭാഷണമായോ അല്ലെങ്കിൽ തപാൽ വഴിയോ നടത്താം ചോദ്യങ്ങൾ ചിലപ്പോൾ കൃത്യമായ അവസാനം ഇല്ലാത്തവ ആയിരിക്കും അല്ലെങ്കിൽ വളരെ കൃത്യമായ ഘടനയോട് കൂടിയ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ഒരു ഉത്തരം തിരഞ്ഞെടുക്കാൻ അവസരം ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം തെരഞ്ഞെടുക്കുന്നതിൽ സ്വാതന്ത്ര്യം ഉണ്ടാകാം കാരണം നിങ്ങൾ പക്ഷപാതവും അവ്യക്തതയും ഒഴിവാക്കുകയും കൂടാതെ പങ്കെടുക്കുന്നവരെ വ്രണപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാതെയും ശ്രദ്ധിക്കണം അപ്പോൾ ചോദ്യാവലികൾ വളരെ പ്രസിദ്ധമായൊരു ഉപാധിയാണ് ഇതുകൂടാതെ മനഃശാസ്ത്രത്തിൽ വളരെയധികം ഉപകരണങ്ങൾ ഉപയോഗിച്ചുവരുന്നു ഇക്കാലത്ത് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ടെസ്റ്റുകൾ ഉണ്ട് കൂടാതെ തന്നെ പഴയ മോഡലുകളായ മെമ്മറി ഡ്രം ടാക്കിസ്റ്റോസ്കോപ്പ് മുള്ളർ ലയർ അപ്പാരസ്റ്റാറ്റസ് എന്നിവയും ലഭ്യമാണ് പരമ്പരാഗതമായ ഡിപ്പാർട്ട്മെൻറ് ലബോറട്ടറികളിൽ ഉപകരണങ്ങളുടെ മുഴുവൻ ശ്രേണി തന്നെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ കൂടുതൽ ഉപകരണങ്ങളും കമ്പ്യൂട്ടർ അധിഷ്ഠിതമാണെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ പ്രോഗ്രാമുകൾ എഴുതാനും അല്ലെങ്കിൽ എക്സ്പിരിമെൻറ്കൾ രൂപകൽപ്പന ചെയ്യാനും സാധിക്കുന്ന പ്രത്യേകതരം സോഫ്റ്റ്വെയറുകളും ലഭ്യമാണ് അപ്പോൾ ഇവയൊക്കെയാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു മനുഷ്യ പ്രതിഭാസത്തെ മനസ്സിലാക്കുവാനായി മനഃശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ടെക്നിക്കുകളും മനഃശാസ്ത്രപരമായ അടിസ്ഥാനങ്ങൾ ഇവയുപയോഗിച്ച് വളരെ എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഈ രീതികളെല്ലാം തന്നെ വളരെയധികം പ്രചാരത്തിലുള്ളവയാണ് ഒടുവിലായി നമ്മൾ അവയുടെ ഗുണങ്ങളെയും പരിമിതികളെയും പറ്റി ചർച്ച ചെയ്തിരുന്നു അപ്പോൾ വിഷയ സംബന്ധിയായ രചനകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും അതെന്തെന്നാൽ ചില പഠനങ്ങൾ ഒരു രീതി ഉപയോഗിക്കുകയും മറ്റു പഠനങ്ങൾ മറ്റൊരു രീതി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു കാര്യം ഓർക്കുക ഏതു രീതി ഉപയോഗിച്ചാലും ഏതുതരം ടെക്നിക്കുകൾ ഉപയോഗിച്ചാലും നിങ്ങൾ അടിസ്ഥാനപരമായും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇവയാണ് ഇവിടെ വേരിയബിൾസ് എന്ന് വിളിക്കപ്പെടുന്നത് അതുപോലെ നിങ്ങൾ ഒരു പ്രക്രിയ വിശകലനം ചെയ്യുന്നു മാനസിക പ്രക്രിയ സ്വാഭാവ പ്രക്രിയ മനഃശാസ്ത്രപരമായ പ്രക്രിയ ഇവയൊക്കെയും മനഃശാസ്ത്രത്തിലെ രീതികളെ പറ്റിയാണ് പറയുന്നത് മൂല വാക്യങ്ങൾ രീതികൾ നിരീക്ഷണംകേസ് സ്റ്റഡി സർവ്വേ കോറിലേഷനൽ റിസർച്ച് എക്സ്പീരിമെൻറൽ റിസർച്ച് മീഡിയേഷൻ മോഡറേഷൻ